നമസ്കാരം ഇതുവരെ നമ്മൾ സർക്യൂട്ട് സിദ്ധാന്തങ്ങളിൽ മൂന്ന് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ ചർച്ചചെയ്തു അതായത് നോർട്ടൺ സിദ്ധാന്തം തെവനിയൻ സിദ്ധാന്തം സൂപ്പർ പൊസിഷൻ സിദ്ധാന്തം ഇന്ന് നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ സിദ്ധാന്തത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു അപ്പോൾ പല അവസ്ഥയിലും പവർ ലോഡിലേക്ക് കൊടുക്കുന്നതിന് ആയിട്ടാണ് സർക്യൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത് അതിനാൽ വോൾടേജോ കറണ്ടൊ കണ്ടുപിടിക്കുന്നതിനേക്കാൾ നമ്മൾ ശ്രദ്ധചെലുത്തെണ്ടത് പവറിൽ ആണ് അതായത് ലോഡിലേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളിൽ ഉള്ളതുപോലെയുള്ള ആപ്ലിക്കേഷനുകൾ ഇവിടെയുമുണ്ട് അതായതു മാക്സിമം പവർ നോഡിലേക്ക് എവിടെ കൂടിയാണ് കൊടുക്കേണ്ടത് എന്ന് അപ്പോൾ നമുക്ക് എന്തുണ്ട് നമുക്ക് എന്തു ചെയ്യാം മാക്സിമം പവർ കൊടുക്കേണ്ട പ്രശ്നം അഭിസംബോധന ചെയ്യാം പുറത്തുനിന്നുള്ള നഷ്ടം നമുക്ക് ആ തന്നിരിക്കുന്ന സിസ്റ്റത്തിലെ അറിയാമെങ്കിൽ ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അകത്തുള്ള നഷ്ടങ്ങൾ കാണുകയാണെങ്കിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയതോതിൽ നഷ്ടം അകത്തു ഉണ്ട് എന്ന് ആണ് ഇത് എങ്ങനെ സംഭവിക്കും മാക്സിമം പവർ ട്രാൻസ്ഫർ വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രത്യേകമായ അപൂർവ്വത നിങ്ങൾക്കു മനസ്സിലാകും ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത തെവനിയൻ തുല്യതാ ആയിരിക്കും മാക്സിമം പവർ ലീനിയർ സർക്യൂട്ടിൽ കണ്ടുപിടിക്കുവാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തു തന്നെ നെറ്റ്വർക്ക് ആയിക്കോട്ടെ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് 2 ടെർമിനൽ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഇവിടെ നോക്കുക ഇതൊരു ലീനിയർ നെറ്റ്വർക്ക് ആണ് അതിനാൽ ഈ നെറ്റ്വർക്ക് തെവനിയൻ തുല്യത യുമായി മാറ്റിവയ്ക്കാം ഇത് നമ്മൾ തെവനിയൻ തുല്യത ചർച്ച ചെയ്തപ്പോൾ കണ്ടതാണ് ഇപ്പോൾ എന്തു തന്നെ നെറ്റ്വർക്ക് ആയിക്കോട്ടെ നിങ്ങൾക്കുള്ളത് അതിനെ തെവനിയൻ തുല്യത വോൾട്ടേജും തെവനിയൻ തുല്യത റെസിസ്റ്റൻറ് മായി വിവരിച്ചു പറയാം ഇനി നമുക്ക് ഇപ്പോൾ തെവനിയൻ തുല്യതാ കണ്ടുപിടിച്ച ടെർമിനലിനു കുറുകേ ലോഡ് ചേർക്കണം എന്നിട്ട് ഏത് വ്യവസ്ഥയിലാണ് മാക്സിമം പവർ ഈ നെറ്റ്വർക്ക് നോഡിലേക്ക് കൊടുക്കുന്നതെന്ന് കണ്ടുപിടിക്കണം അതിനാൽ നമ്മൾ ഇവിടെ സങ്കൽപ്പിക്കുകയാണ് ലോഡ് പരിവർത്തന വസ്തുവാണെന്ന് അതിനാൽ മാക്സിമം പവർ ട്രാൻസ്ഫർ അവസ്ഥയോടനുബന്ധിച്ച് അതിനെ നമുക്ക് പൊരുത്തപ്പെടുത്താമെന്ന് ഇനി തെവനിയൻ തുല്യതാ നെറ്റ്വർക്കിൽ ഉള്ള ഈ സർക്യൂട്ട് നോക്കിയാൽ കാണാം പരിവർത്തന വസ്തുവായ ലോഡ് ഘടിപ്പിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ ആ കേസിൽ പവർ എന്തായിരിക്കും പവർ ആയിരിക്കും ഈ കേസിൽ ആണ് കാരണം ഈ റെസിസ്റ്റൻസ് പുറത്തേക്ക് കളയുന്ന പവർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ കറണ്ടിന്റെ മൂല്യം ആയിരിക്കും കറണ്ടിന്റെ സ്ക്വയർ നോട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും പവറിന്റെ മൂല്യം ലോഡിലേക് കൊടുക്കുന്നത് ഇനി നിങ്ങൾ ഈ സമവാക്യം നോക്കിയാൽ കാണാം ഉം ഉം നിശ്ചിതം ആണെന്ന് കാരണം ഇത് തുല്യത നെറ്റ്വർക്ക് ആണ് ഒരു പ്രത്യേക സമയത്തു അപ്പോൾ ആ സമയത്തു ന്റെയും ന്റെയും മൂല്യം നിശ്ചിതം തന്നെ ആയിരിക്കും ഈ സർക്യൂട്ടിൽ മാറുന്ന ഒരേയൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ആണ് ഇനി ന്റെ മൂല്യം മാറ്റിയാൽ സങ്കൽപ്പിക്കുക പൂജ്യത്തിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് നെറ്റ്വർക്കിംഗ് നോഡിലേക്ക് കൊടുത്തിരിക്കുന്ന പവറിന് മൂല്യം അളക്കുക എന്നാൽ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ഒരു വളവ് വരയ്ക്കാം അപ്പോൾ ൻറെ മൂല്യം നിങ്ങൾ കൂട്ടാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കാണാം ഈ ലോഡിൽ ആവശ്യമുള്ള പവർ കൂടുന്നത് ഒരു പ്രത്യേക നിമിഷത്തിൽ പവർ മാക്സിമം ആയിരിക്കും അതുകഴിഞ്ഞ് പവറിന്റെ മൂല്യം വീണ്ടും കുറഞ്ഞു തുടങ്ങും ന്റെ മൂല്യം കൂടിതുടങ്ങിയാൽ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു സമയമുണ്ട് ആ സമയം മാക്സിമം പവർ ലോഡിലേക്ക് കൊടുക്കപെടും ഇനി നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഏത് അവസ്ഥയിലാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ ന്റെ മൂല്യം എത്ര ആയിരിക്കും മാക്സിമം പവർ നെറ്റ്വർക്കിന് ലോഡിലേക്ക് കൊടുക്കുവാൻ നമ്മൾ കണ്ടുപിടിച്ച മൂല്യങ്ങളിൽ നമുക്ക് നോക്കാം പൂജ്യത്തിന്റെയും ഇൻഫിനിറ്റിയുടെയും ഇടയിൽ മാറുമ്പോൾ മാക്സിമം പവർ സംഭവിക്കുന്നത് എവിടെ ആണെന്ന് നിങ്ങൾ ഈ ചിത്രം നോക്കിയാൽകാണാം മാക്സിമം പവർ ട്രാൻസ്ഫർ ലോഡിലേക്ക് സംഭവിക്കുന്നത് ന്റെ മൂല്യം ആകുമ്പോളാണ് എന്ന് അപ്പോൾ ഈ നെറ്റ്വർക്കിൽ ന്റെ മൂല്യം തെവനിയൻ റെസിസ്റ്റൻസിന്റെ തുല്യം ആകുമ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ സംഭവിക്കും പവർ യുടെ സഹായത്തോടെ നമ്മൾ ഇത് കടന്നുപിടിക്കും നമ്മൾ ഇപ്പോൾ നിർണ്ണയിച്ചത് ഇനി നമുക് നോക്കാം എങ്ങനെ നമുക്ക് പറയാം നു തുല്യമാണെന്ന് അപ്പോൾ ഇഷ്ടതമം അവസ്ഥ കണ്ടുപിടിക്കണം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വ്യതിരിക്തം ചെയ്യണം ഇവിടെകൊടുത്തിരിക്കുന്ന ഫങ്ക്ഷൻ p യെ അപ്പോൾ പവർ കിട്ടുക അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ സിദ്ധാന്തം സ്ഥാപിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ p യെ വ്യതിരിക്തം ചെയ്യണം അതായത് ഈ സമവാക്യത്തിൽ ന് അനുസൃതമായി ഇനി നമ്മൾ മാക്സിമം മൂല്യത്തിൽ എത്തിച്ചേർന്നോ ഇല്ലയോ എന്ന് അറിയുവാൻ വേണ്ടി നമുക്ക് സ്ഥാപിക്കണം നമ്മൾ p യെ വ്യതിരിക്തം ചെയ്യണം ന് അനുസൃതമായി ഇത് മാത്രം ആണ് ഈ സമവാക്യത്തിൽ എക പരിവർത്തനവസ്തു ഇനി പവർ സമവാക്യം വ്യതിരിക്തം ചെയ്താൽ നമുക്ക് കിട്ടും ഇത് പൂജ്യം ആക്കുമ്പോൾ ന്യൂമറേറ്റർ പ്രമേയാഖ്യ ആയിരിക്കും അതിനാൽ അവസാനം കിട്ടും മാക്സിമം പവർ ട്രാൻസ്ഫർ സംഭവിക്കുന്നത് ലോഡ് റെസിസ്റ്റൻസ് തെവനിയൻ റെസിസ്റ്റൻസിന് തുല്യം ആകുമ്പോൾ ആണ് ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ് നു അനുസൃതമായി പവർ p യുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചപ്പോൾ ഇത് ചഞ്ചലമാണ് ഇപ്പോൾ നമുക് അറിയാം ഡെറിവേറ്റീവ് ആകുമ്പോൾ ആ അവസ്ഥയിൽ നമുക്കു കിട്ടുന്ന ന്റെ മൂല്യം അത് പവർ p യിലേക്ക് സപ്ലൈ ചെയ്താൽ പവർ ഒന്നെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം ആകും ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ കണ്ടുപിടിച്ച അവസ്ഥ ശരിക്കും മാക്സിമം ആണോ അല്ലയോ എന്നാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ലിനെ അനുസൃതം ആക്കി പവർ ഡബിൾ ഡിഫറെന്റിയേറ്റ് ചെയ്യണം എന്നിട്ട് തെളിയിക്കണം അത് പൂജ്യത്തിനേകാളും കുറവാണ് എന്ന് ഇത് പരിഹരിച്ചാൽ സ്ലൈഡിൽ കാണുന്നതുപോലെ പോലെ നിങ്ങൾക്ക് കിട്ടും ഡബിൾ ഡിഫറെൻഷ്യൽ പൂജ്യത്തെകാളും ചെറുത് അതിനാൽ ലോഡ് റെസിസ്റ്റൻസ് തെവനിയൻ റെസിസ്റ്റൻസിന് തുല്യം ആകുമ്പോൾ മാക്സിമം പവർ ലോഡിലേക്ക് മാറ്റപ്പെടും അപ്പോൾ നമ്മൾ പവർ സമവാക്യത്തിൽ ന്റെ മൂല്യം പകരം വയ്ക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത് മാക്സിമം പവർ നെറ്റ്വർക്കിൽ നിന്ന് ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൂല്യം അടിസ്ഥാനം ഉള്ളതാവണം എങ്കിൽ ആയിരിക്കണം ഇനി ഇപ്പോൾ വിവരിച്ചു ഇരിക്കുന്നത് സർക്യൂട്ടിന്റെ നഷ്ടം ആണെങ്കിൽ നമുക്കു ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ആണ് ഉള്ളതെങ്കിൽ എന്ത് സംഭവിക്കും കൂടാതെ ലോഡ് ഈ പുറത്തുള്ള ടെർമിനൽ എ ബി ആയിട്ടാണ് ഘടിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഈ നെറ്റ്വർക്ക് തെവനിയൻ തുല്യത ആയിട്ടാണ് വിവരിച്ചു ഇരിക്കുന്നതെങ്കിൽ പക്ഷെ ന്റെ മൂല്യം ആദ്യം നമ്മൾ ഇവിടെ കാണുന്നത് വേറൊന്നുമല്ല പക്ഷേ മൊത്തമായ ആയ നെറ്റ്വർക്കിൽ ഉള്ള നഷ്ടം ആണ് ഇനി ഈ ലോഡ് മാക്സിമം പവർ അവസ്ഥയിൽ ഘടിപ്പിച്ചാൽ സ്രോതസ്സിൽ നിന്ന് മാക്സിമം പവർ ഈ ലോഡിന് ലഭിക്കുമെങ്കിലും നഷ്ടവും മാക്സിമം ആയിരിക്കും അതിനാലാണു് മാക്സിമം പവർ ട്രാൻസ്ഫെർ അവസ്ഥ നഷ്ടങ്ങൾ ഉള്ള സിസ്റ്റത്തിൽ ഒരിക്കലും ഫലപ്രദമാകാത്തത് ആ കേസിൽ നഷ്ടം ഏതുമാകട്ടെ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നത് ലോഡ് ആഗികരണം ചെയ്യുന്ന പവറിനു തുല്യമാണ് നമുക്ക് ഇപ്പോൾ പറയാം അതായത് വ്യക്തമായ വ്യത്യാസമുണ്ട് സ്രോതസ്സിൽ നിന്ന് മാക്സിമം പവർ വലിച്ചെടുക്കുന്നതും ലോഡിലേക്ക് മാക്സിമം പവർ കൊടുക്കുന്നതും തമ്മിൽ ഇനി ഇപ്പോൾ ലോഡ് നിർദ്ദിഷ്ടവലിപ്പമുള്ളത് ആകുമ്പോൾ അതായത് റെസിസ്റ്റൻസ് നെറ്റ്വർക്കിന്റെ തെവനിയൻ റസിസ്റ്റൻസ്നു തുല്യം ആകുമ്പോൾ ഇതിലെ മാക്സിമം പവർ നെറ്റ്വർക്കിൽ നിന്ന് കിട്ടും ലോഡ് റസിസ്റ്ററിൽ ഉള്ള എന്തെങ്കിലും ഒരു മാറ്റം അത് കൂടുതൽ ആയിക്കോട്ടെ കുറവായിക്കോട്ടെ തെവനിയൻ റസിസ്റ്റൻസ്സിനു അനുസൃതമായി അത് ലോഡ്ജിലേക്ക് കൊടുക്കേണ്ട പവറിനെ കുറയ്ക്കും മറ്റേ വശത്ത് നമുക്ക് പറയാം വോൾടേജ് സ്രോതസ്സിൽ നിന്ന് നമ്മൾ മാക്സിമം പവർ കറണ്ട് സ്രോതസ്സ് വഴിയാണ് വലിച്ചെടുക്കുന്നത് ഇതാണ് നമ്മൾ പറയുന്ന അവസ്ഥ അതായത് ലോഡിലേക്ക് സ്രോതസ്സ് മാക്സിമം പവർ കൊടുക്കുന്ന അവസ്ഥ ഇനി നമുക്ക് നോക്കാം മാക്സിമം പവർ സ്രോതസ്സിൽ നിന്ന് എടുക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനാൽ മാക്സിമം പവർ സ്രോതസ്സിൽ നിന്ന് എടുക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ മാക്സിമം സംഭവ്യമായ കറണ്ട് സ്രോതസ്സിൽ നിന്ന് കൈവരിക്കുക എന്നാണ് ഇത് സംഭവ്യമാകണമെങ്കിൽ ടെർമിനൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക കാരണം ആ അവസ്ഥയിൽ മാത്രമേ മാക്സിമം കറണ്ട് കിട്ടുകയുള്ളൂ ആ കേസിൽ എന്തു സംഭവിക്കും നമുക്ക് 0 പവർ ലോഡിലേക്ക് കൊടുക്കാൻ സാധിക്കും കാരണം ആ കേസിൽ R ന്റെ മൂല്യം 0 ആണ് കാരണം ടെർമിനൽ ഷോർട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കു മനസിലാക്കാൻ സാധിക്കും വ്യക്തമായ വ്യത്യാസമുണ്ട് മാക്സിമം പവർ വലിച്ചെടുക്കുന്നതും ലോഡിലേക്ക് മാക്സിമം പവർ കൊടുക്കുന്നതും തമ്മിൽ അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ സിദ്ധാന്തം ബാധകമായി വരുക സ്രോതസ്സിൽ നിന്ന് നോഡിലേക്ക് മാക്സിമം പവർ കൊടുക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് മാക്സിമം പവർ വലിച്ചെടുക്കുന്നു അതിൻറെ അർത്ഥം ആ അവസ്ഥയിൽ ലളിതമായി സ്രോതസ്സിന്റെ ടെർമിനൽ തരം തിരിക്കുന്നു എന്നിട്ട് സ്രോതസ്സിൽ നിന്നുള്ള കറണ്ട് ഔട്ട്പുട്ട് മാക്സിമൈസ്സ് ചെയ്യുന്നു ഇനി വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിൽ വെക്കേണ്ടത് എന്താണെന്നു വെച്ചാൽ മാക്സിമം പവർ സിദ്ധാന്തം ചിലപ്പോൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം എന്തു സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ സിദ്ധാന്തം രൂപീകരിച്ചു പവർ ആഗിരണം മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ഒരു ശരിയായിട്ടുള്ള ലോഡ് തിരഞ്ഞെടുത്തു പക്ഷേ ലോഡ് നിശ്ചിതം ആണെങ്കിൽ അതായത് ലോഡ് റെസിസ്റ്റൻസ് മുന്നേ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ മാക്സിമം പവർ സിദ്ധാന്തം സഹായകമാകുവാൻ സാധിക്കുകയില്ല കാരണം ലോഡിൻറെ മൂല്യം നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് അതായത് ഒരു നിശ്ചിതമാണ് അല്ലാതെ ഒരു പരിവർത്തന വസ്തു അല്ല ഓടിക്കുക നെറ്റ്വർക്ക് ഘടകങ്ങൾ ആണ് അതിനാൽ നിങ്ങളുടെ ഉം ഉം നേരത്തെ തന്നെ നിശ്ചിതമാണ് ഉം നിശ്ചിതമാണ് നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ അവസ്ഥ കണ്ടുപിടിക്കുവാൻ സാധിക്കുകയില്ല ആ വഴിയിൽ ലോഡ് റസിസ്റ്റൻസ് മുന്നേ തന്നെ വ്യക്തപ്പെടുതിയതാണെങ്കിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ സിദ്ധാന്തം പാലിക്കപ്പെടില്ല സങ്കല്പിക്കുക നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പരി വർത്തന വസ്തുവാക്കി എങ്കിൽ ആ കേസിൽ നെറ്റ്വർക്ക് ന്റെ തെവനിയൻ തുല്യത ലോഡിന് തുല്യം ആകണമെങ്കിൽ അത് മാക്സിമം പവർ ട്രാൻസ്ഫർ അവസ്ഥ എപ്പോഴും ഉറപ്പു നൽകണമെന്നില്ല കാരണം പ്രായോഗികമായ അവസ്ഥയിൽ ഇതിൽ നെറ്റ്വർക്കിൽ ചില നഷ്ടം ഉള്ള ഘടകങ്ങൾ ഉണ്ടാകും അപ്പോൾ നഷ്ട ഘടകങ്ങളുടെ ലഭ്യത മൂലം നമുക്ക് ആ ഘടകങ്ങളിൽ പവർ നഷ്ടം ഉണ്ടാകും ആ കേസിൽ നിങ്ങൾ നിങ്ങളുടെ തെവനിയൻ തുല്യത കാണുന്ന സർക്യൂട്ട് മാക്സിമം പവർ അവസ്ഥ കണ്ടു പിടിക്കുന്നതിനായി സഹായകരം ആവണമെന്ന് ഇല്ല കാരണം അവിടെ ഒരു നഷ്ട ഘടകം എപ്പോഴുമുണ്ടാകും കൂടാതെ ഈ ഘടകം ഈ അവസ്ഥ നമുക്ക് തരില്ല അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രായോഗികമായ സാഹചര്യം നമ്മൾ എപ്പോഴും ഒരു പവർ നഷ്ടം സർക്യൂട്ടിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നോക്കേണ്ടതാണ് ഇനി മാക്സിമം പവർ ട്രാൻസ്ഫർ സിദ്ധാന്തം നമുക്കൊരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന സർക്യൂട്ട് ഉണ്ട് ഇനി നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ കണ്ടുപിടിക്കണം ഏത് മൂല്യത്തിൽ ആയിരിക്കും മാക്സിമം പവർ ട്രാൻസ്ഫർ നമുക്ക് കിട്ടുക അപ്പോൾ എന്താണ് ആദ്യത്തെ പടി ആദ്യത്തെ പടി തെവനിയൻ തുല്യതാ ഈ സർക്യൂട്ടിലെ കണ്ടുപിടിക്കുക എന്നതാണ് ഇത് ടെർമിനൽ എ ബിയുടെ ഇടതുവശത്താണ് അതിനുവേണ്ടി നമ്മൾ എന്തു ചെയ്യണം നമ്മളാദ്യം വോൾട്ടേജ് സ്രോതസ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം പിന്നെ കറണ്ട് സ്രോതസ്സ് ഓപ്പൺ സർക്യൂട്ട് അതിനാൽ തെവനിയൻ റെസിസ്റ്റൻറ് മൂല്യം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഇനി ഈ സർക്യൂട്ട് നോക്കിയാൽ കാണാം വോൾട്ടേജ് സ്രോതസ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്തപ്പോൾ കറണ്ട് സ്രോതസ്സ് ഓപ്പൺ സർക്യൂട്ട് ചെയ്തപ്പോൾ 6 ഓം റെസിസ്റ്റൻസ് 12 ഓം ആയിട്ട് പാരലൽ ആയിരിക്കും പിന്നെ ഈ 3 ഓം 2 ഓം റസിസ്റ്റൻസ് സീരിസിലും അപ്പോൾ ന്റെ മൂല്യം എന്തായിരിക്കും

അടുത്ത കൃത്യം എന്താണെന്ന് വെച്ചാൽ ന്റെ മൂല്യം അതായത് തെവനിയൻ വോൾട്ടേജ് കണ്ടുപിടിക്കുക എന്നാണ് ഇനി നിങ്ങൾ സർക്യൂട്ട് നോക്കിയാൽ കാണാം സ്രോതസ്സുകൾ തിരിച്ചു സർക്യൂട്ടിൽ വെച്ചാൽ അവിടെ നമുക്ക് സർക്യൂട്ടിൽ രണ്ട് മെഷുകൾ കാണാം നമുക്ക് പറയാം മെഷ് ഒന്നിൽ മെഷ് കറണ്ട് മെഷ് രണ്ടിൽ മെഷ് കറണ്ട് കൂടാതെ ടെർമിനൽ എ ബി യ്ക്ക് കുറുകെ ഉള്ള വോൾടേജ് ഇനി ആ കേസിൽ നിങ്ങൾ സർക്യൂട്ട് നോക്കിയാൽ ആയിരിക്കും ഈ മെഷിൽ KVL എഴുതിയാൽ നിങ്ങൾ എന്ത് എഴുത്തും നിങ്ങൾ എഴുത്തും ന്റെ മൂല്യം ആദ്യത്തെ സമവാക്യത്തിൽ ഇട്ടാൽ എന്നിട്ട് ലളിതം ആക്കിയാൽ നമുക്ക് കിട്ടുന്നത് ഇനി ചിത്രത്തിൽനിന്ന് ഇന്ന് നിങ്ങൾ കാണുന്നത് വേറൊന്നും അല്ല പക്ഷേ കറണ്ട് സ്രോതസ്സിന് കുറുകെയുള്ള വോൾട്ടേജ് കാരണം 2 ഓം റെസിസ്റ്ററിലൂടെ കറണ്ട് പ്രവഹിക്കുന്നില്ല കാരണം ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ് അതിനാൽ കറണ്ട് സ്രോതസ്സിന് കുറുകെ വോൾടേജ് ആയിരിക്കും ഈ കേസിൽ നമുക്ക് എന്ത് എഴുതാം KVL ഈ ഭാഗത്തു പ്രയോഗിച്ചാൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ന്റെ മൂല്യം കിട്ടി ന്റെ മൂല്യം നമുക്ക് 9 ഓം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തുല്യതാ സർക്യൂട്ടിലെ തെവനിയൻ തുല്യത 22 വോൾട്ട് 9 ഓം സീരിസിൽ ആയിട്ട് ഉണ്ട് കൂടാതെ അജ്ഞാതമായ ലോഡ് നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ സിദ്ധാന്തം ഉപയോഗിച്ച് നമുക്ക് പറയാം മാക്സിമം പവർ 9 ഓം റെസിസ്റ്റൻസ് ലോഡ് നു തുല്യം ആകുമ്പോൾ അതിലേക്ക് മാറ്റപ്പെടും അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ അവസ്ഥയിൽ 9 ഓം നമുക്ക് ഇതുവെച്ച് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം മാക്സിമം പവർ ട്രാൻസ്ഫർ സിദ്ധാന്തത്തിന്റെ ചർച്ച നമ്മൾ അടുത്ത ക്ലാസിലും തുടരും അവിടെ ആശ്രിത സ്രോതസ്സ് സർക്യൂട്ടിൽ ഉള്ള കേസ് ആയിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക അപ്പോൾ മാക്സിമം പവർ നമ്മൾ എങ്ങനെ നിർണയിക്കും കൂടാതെ അതെങ്ങനെ ലോഡിലേക്ക് ട്രാൻഫെർ ചെയ്യും